കഴിഞ്ഞ ക്ലാസ്സിൽ എഞ്ചിനീയറിംഗ് ഫ്രാക്ചർ മെക്കാനിക്സിനെക്കുറിച്ചുള്ള കോഴ്സിന്റെ ഹ്രസ്വ രൂപരേഖ എന്താണെന്ന് നമ്മൾ കണ്ടു തുടർന്ന് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് നിന്നുള്ള ആശയങ്ങൾ അവലോകനം ചെയ്തു നിങ്ങൾ പഠിച്ച ആശയം എന്തായാലും വളരെ ഉപയോഗപ്രദമാണ് പക്ഷേ നിങ്ങൾ നേടിയ അറിവ് പരിമിതമാണ് നിങ്ങൾക്ക് മെറ്റീരിയൽ സ്വഭാവ സവിശേഷത മനസ്സിലാക്കാൻ താൽപ്പര്യപ്പെടുമ്പോൾ നടത്തിയ ഏറ്റവും ലളിതമായ പരിശോധന ആണ് ടെൻഷൻ ടെസ്റ്റ് നിങ്ങൾക്ക് ഒരു ഇലാസ്റ്റിക് മേഖലയുണ്ട് അതിനുശേഷം ഒരു വലിയ പ്ലാസ്റ്റിക് സോൺ ഉണ്ട് തുടർന്ന് മെറ്റീരിയൽ മാത്രം പരാജയപ്പെടുന്നു ഇതായിരുന്നു ടെൻഷൻ പരിശോധനയിൽ ശ്രദ്ധാകേന്ദ്രം എന്നാൽ ആളുകൾ അവരുടെ രൂപകൽപ്പനയിൽ ചലിക്കുന്ന ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ ലോക്കോമോട്ടീവുകൾ പരാജയപ്പെടാൻ തുടങ്ങിയതുപോലെ മെറ്റീരിയലിനെ പൂർണ്ണമായി ചിത്രീകരിക്കുന്നതിന് ലളിതമായ ടെൻഷൻ ടെസ്റ്റ് പര്യാപ്തമല്ലെന്ന് ആളുകൾക്ക് തോന്നി ഇനിയും എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട് അതിനാൽ ഇത് ഒരു പുതിയ ടെസ്റ്റ് രൂപകൽപ്പന ചെയ്യാൻ പ്രേരിപ്പിച്ചു ഇത് ഫാറ്റിഗ് പരിശോധന എന്നറിയപ്പെടുന്നു നമ്മുടെ മാതൃകയിൽ ആവർത്തിച്ചുള്ള ലോഡിംഗ് പ്രയോഗിക്കുക ടെസ്റ്റ് മാതൃക ഒടുവിൽ പരാജയപ്പെടുമ്പോൾ സൈക്കിളുകളുടെ എണ്ണം മാത്രം അളക്കുന്നതിൽ പരിശോധന പരിമിതപ്പെടുത്തി ഇതിൽ ആയിരുന്നു നമ്മുടെ ശ്രദ്ധ ഇതിനിടയിൽ നിങ്ങൾ മറ്റ് വിവരങ്ങളൊന്നും രേഖപ്പെടുത്തുന്നില്ല ഇത് ഒരു ലളിതമായ ടെൻഷൻ പരിശോധനയിൽ നിന്നുള്ള ഒരു മെച്ചപ്പെടുത്തലാണ് പ്രവർത്തന അവസ്ഥയിൽ നിങ്ങൾ ആവർത്തിച്ച് ലോഡുചെയ്യുന്നു അതിനാൽ നിങ്ങൾക്ക് ആവർത്തിച്ചുള്ള ലോഡിംഗ് അനുകരിക്കാനും മാതൃക തകരുന്നതുവരെ ഒരു പരിശോധന നടത്താനും കഴിഞ്ഞു അതിനാൽ നിങ്ങൾ വളരെയധികം ഡാറ്റ ശേഖരിക്കുകയും നിങ്ങൾക്ക് പ്രോസസ്സ് ചെയ്യുന്നതിനായി ഈ ഡാറ്റ നല്ല രൂപത്തിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നു

കൂടാതെ പ്രയോഗിച്ച സ്ട്രെസ്ന്റെയും പരാജയപ്പെടാനുള്ള ചക്രങ്ങളുടെ എണ്ണവും തമ്മിലുള്ള ഒരു ലോഗ് ലോഗ് പ്ലോട്ടും നിങ്ങൾക്കുണ്ട്

വാസ്തവത്തിൽ x ആക്സിസ് പ്ലോട്ട് ചെയ്യേണ്ട രീതിയും y ആക്സിസ് പ്ലോട്ട് ചെയ്യേണ്ട രീതിയും എന്തായിരിക്കണം എന്നത് ലളിതമല്ല ഇവിടെ നിങ്ങൾക്ക് ചിതറിയ ഒരു ഡാറ്റ ഉണ്ട് നന്നായി നടത്തിയ പരീക്ഷണത്തിന്റെ സൂചനയാണിത് അതിനാൽ ഒരു പരീക്ഷണത്തിൽ സാധാരണയായി നിങ്ങൾക്ക് ഡാറ്റ ചിതറിക്കിടക്കുകയും ഈ ഗ്രാഫിന്റെ ഒരു രേഖാചിത്രം നിർമ്മിക്കാൻ നിങ്ങൾക്ക് സമയം എടുക്കുകയും ചെയ്യും നിങ്ങൾക്ക് ലഭിച്ച ഡാറ്റ എന്തുതന്നെയായാലും നിങ്ങൾ അതിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലാക്കേണ്ടതുണ്ട് സ്ട്രെസ് ഉം സ്ട്രെയിൻ ഉം എന്ന സങ്കല്പത്തിന്റെ ഉൽഭവം നോക്കുകയാണെങ്കിൽ അത് ലോഡ് എലോംഗേഷൻ കർവുകൾ ചെയ്യുന്നതിൽ നിന്നാണ് ആരംഭിച്ചത് തുടർന്ന് ലോഡ് എലോംഗേഷൻ കർവ് ആയി പ്ലോട്ട് ചെയ്യുന്നതിനുപകരം നിങ്ങൾ ഇത് സ്ട്രെസ് വേഴ്സസ് സ്ട്രെയിൻ ആയി പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നൽകിയ മെറ്റീരിയലിന് നിങ്ങൾക്ക് ഒരു ഗ്രാഫ് മാത്രമേ ഉണ്ടാകൂ അതിനാൽ എഞ്ചിനീയറിംഗിലെ എന്തെങ്കിലും വികസനം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഡാറ്റ ശേഖരിക്കുന്നത് അതിന്റെ ഒരു വശമാണ് ഡാറ്റ റിപ്പോർട്ടുചെയ്യുന്നതും ഡാറ്റയിൽ നിന്ന് ഒരു അർത്ഥം കണ്ടെത്താൻ ശ്രമിക്കുന്നതും ഒരുപോലെ വെല്ലുവിളിയാണ് അതിനാൽ ഒരു ഫാറ്റിഗ് പരിശോധനയുടെ കാര്യത്തിൽ നിങ്ങൾ ഒരു ലോഗ് ലോഗ് ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ അവർ തീരുമാനിച്ചു അത് വസ്തുവിൻറെ പരാജയപ്പെടുത്തുവാൻ എടുക്കുന്ന സൈക്കിളുകളുടെ എണ്ണവും y അച്ചുതണ്ടിൽ ആത്യന്തിക ടെൻഷൻത്തിന്റെ ശക്തിയാൽ വിഭജിക്കപ്പെടുന്ന ആൾട്ടർനേറ്റിംഗ് സ്ട്രെസ്ന്റെ വ്യാപ്തിയും ആണ്

ഇവിടെ നിങ്ങൾ ഇതുപോലുള്ള ഒരു രേഖ വരയ്ക്കാനുള്ള അവസ്ഥയിലാണെന്ന് കണ്ടെത്തും ഒരു നിശ്ചിത ആൾട്ടർനേറ്റിംഗ് സ്ട്രെസ്ന് ഇത് ഏറ്റവും പ്രതീക്ഷിച്ച ആയുസ്സ് N നൽകുന്നു കൂടാതെ നിങ്ങൾക്ക് ഒരു ഡിസൈൻ കാഴ്ചപ്പാടിൽ നിന്നും എൻഡ്യൂറൻസ് പരിധി എന്ന് വിളിക്കുന്ന ഒരു പാരാമീറ്റർ ഉണ്ട് അതിനാൽ നിങ്ങൾ വസ്തുവിൻറെ മാതൃക ലോഡു ചെയ്യുകയാണെങ്കിൽ എൻഡ്യൂറൻസ് പരിധിയിലേക്ക് മാത്രം ഇത് ഒരു പ്രശ്നവുമില്ലാതെ നിങ്ങൾക്ക് അനന്തമായ ആയുസ്സ് ഉണ്ടാകും എന്ന ധാരണ നൽകുന്നു ഡിസൈൻ കാഴ്ചപ്പാടിൽ നിന്ന് ഇത് വളരെ സൌകര്യപ്രദമായ പാരാമീറ്ററാണ് ആധുനിക ഗവേഷണം പറയുന്നത് ഒരു മെറ്റീരിയലിലും എൻഡ്യൂറൻസ് പരിധി പോലെയൊന്നുമില്ല മതിയായ എണ്ണം സൈക്കിളുകൾക്ക് ശേഷം ഏതു വസ്തുവും പരാജയപ്പെടുന്നു നിങ്ങൾക്ക് ഒരു ഫാറ്റിഗ് പരിശോധന നടത്തിയതിൽ ഒരു എൻഡ്യൂറൻസ് പരിധി ലഭിക്കുമ്പോൾ ഒരു വശം കൂടി നിങ്ങൾ മനസ്സിലാക്കണം ഒരു ടെൻഷൻ പരിശോധനയുടെ ഫലം ഉൾക്കൊള്ളുന്ന ഒരു അനുഭവപരമായ ബന്ധം കണ്ടെത്താനുള്ള ശ്രമങ്ങളും നടക്കുന്നു നിങ്ങൾ ഇവിടെ കണ്ടെത്തുന്നത് ഈ റോഡ് സ്റ്റീലിനായി എൻഡ്യൂറൻസ് പരിധി ആത്യന്തിക ടെൻസൈൽ ശക്തിയുടെ 0 5 ഇരട്ടിയാണ് ഇവിടെ നിങ്ങൾ കണ്ടെത്തുന്ന അനന്തമായ ആയുസ്സ് കൂടിയ ഘടനകൾ രൂപകൽപ്പന ചെയ്യുന്നതിനുള്ള S N കർവിന്റെ വികസനം അന്ന് പ്രചാരത്തിലായിരുന്നു അതിനാൽ അത് ഒരു മെച്ചപ്പെടുത്തലാണ് ടെൻഷൻ പരിശോധനയിൽ നിന്ന് യഥാർത്ഥ പ്രവർത്തന അവസ്ഥയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അനുകരിക്കാൻ നിങ്ങൾ പഠിച്ചു പൂർണ്ണമായും ഇല്ലെങ്കിൽ ഘടനയിൽ ആൾട്ടർനേറ്റിംഗ് ലോഡുകൾ അനുകരിക്കുന്നതിന് വളരെ അടുത്തെങ്കിലും കാരണം നിങ്ങൾ ഒരു ഫാറ്റിഗ് പരിശോധന നടത്തുമ്പോൾ നിങ്ങൾ ഒരു സിനുസോയ്ഡൽ ലോഡിംഗിനായി പോകുന്നു നിങ്ങൾ യഥാർത്ഥ പ്രവർത്തന അവസ്ഥയിലേക്ക് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് വേരിയബിൾ ആംപ്ലിറ്റ്യൂഡ് ലോഡിംഗ് ഉണ്ടാകും അത് ഫോറിയർ സീരീസ് ഉപയോഗിച്ചേക്കാം സിനുസോയ്ഡൽ ലോഡിംഗിന്റെ ഒരു ശ്രേണിയായി നിങ്ങൾക്ക് ഇത് പരിവർത്തനം ചെയ്യാൻ കഴിയും കൂടാതെ ഫാറ്റിഗ് തന്നെ ഒരു വിശാലമായ വിഷയമാണ് സൈക്കിളുകളുടെ എണ്ണം എങ്ങനെ കണക്കാക്കാം ഏത് രീതിയിലാണ് നിങ്ങൾ പോകേണ്ടത് എന്നിങ്ങനെ പോകുന്നു ഒന്നിടവിട്ട ലോഡിന്റെ വശം കൊണ്ടുവന്ന് നിങ്ങളുടെ ഡിസൈൻ രീതിശാസ്ത്രം മെച്ചപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞു എന്നതാണ് ഇവിടെ പ്രധാന കാര്യം തീർച്ചയായും ഈ സമീപനം ഒരു പരിധിവരെ വിള്ളൽ വളർച്ച മൂലമുള്ള പരാജയം തിരിച്ചറിഞ്ഞിട്ടുണ്ട്

പരിശോധന എങ്ങനെയാണ് നടത്തിയതെന്ന് നമ്മൾ ഇതിനകം കണ്ടു സൈക്കിളുകളുടെ എണ്ണം രേഖപ്പെടുത്തുന്നതിനായി മാത്രമാണ് പരിശോധന നടത്തിയത് അതിനാൽ ഒരു വിള്ളലിന്റെ വളർച്ച നിരീക്ഷിക്കാനോ ശേഷിക്കുന്ന ആയുസ്സ് പ്രവചിക്കാനോ ഒരു വ്യവസ്ഥയും ഉണ്ടായിരുന്നില്ല അതിനാൽ ഫ്രാക്ചർ മെക്കാനിക്സിന്റെ വീക്ഷണകോണിൽ നിന്ന് നമ്മൾ ഇത് നോക്കുന്നു ഇപ്പോൾ വിള്ളൽ വളരെ പ്രധാനമാണെന്ന് നമുക്കറിയാം അത് വളരുന്നു വളർച്ച ശരിയായി മനസ്സിലാക്കണം വളർച്ചയെ തകർക്കുന്നതുപോലുള്ള ഡാറ്റ പോലും നിങ്ങൾ കണ്ടെത്തേണ്ടിവരും എന്നാൽ ടെൻഷൻ പരിശോധന കണക്കിലെടുക്കുമ്പോൾ തീർച്ചയായും ഫാറ്റിഗ് ഒരു മെച്ചപ്പെടുത്തലായിരുന്നു അതിനാൽ ഡാമേജ് ടോളറൻസ് അപ്രോച് ഫലപ്രദമാകുന്നതിന് ഒരാൾ കൂടുതൽ സമഗ്രമായ പരിശോധനകൾ നടത്തേണ്ടതുണ്ട് അത് ക്രാക്ക് വളർച്ചാ സ്വഭാവത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നു അതിനാൽ ഇത് വളരെ പ്രധാനമാണ് ഇത് കൂടാതെ നിങ്ങൾക്ക് ഒരു ഡാമേജ് ടോളറൻസ് അപ്രോച് ചെയ്യാൻ കഴിയില്ല അതിനാൽ ഫ്രാക്ചർ മെക്കാനിക്സ് പരിശീലിക്കേണ്ടതുണ്ടെങ്കിൽ നമുക്ക് ഒരു പുതിയ പരിശോധന നടത്തേണ്ടിവരുമെന്ന് പ്രതീക്ഷിക്കുക പരമ്പരാഗത ഡിസൈൻ രീതിശാസ്ത്രത്തെക്കുറിച്ചുള്ള അവലോകനം അതിലേക്ക് പോകുന്നതിനുമുമ്പ് പരമ്പരാഗത രൂപകൽപ്പനയിൽ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം മെറ്റീരിയൽ വൈകല്യങ്ങളോ കുറവുകളോ ഇല്ലാതെ ഒരു ഇലാസ്റ്റിക് തുടർച്ചയാണ് മെറ്റീരിയൽ എന്ന ആശയം ഉപയോഗിച്ചാണ് പരമ്പരാഗത ഡിസൈൻ സമീപനങ്ങൾ നടത്തുന്നത് ഇങ്ങനെയാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനാകുക കാരണം നിങ്ങൾ മെക്കാനിക്സ് വായിച്ചാലും നിങ്ങൾ റിജിഡ് ബോഡി മെക്കാനിക്സിൽ നിന്നാണ് ആരംഭിക്കുന്നത് പിന്നെ നിങ്ങൾ വികലമാക്കാവുന്ന സോളിഡുകളിലേക്ക് പോകുന്നു വികലമാക്കാവുന്ന സോളിഡുകളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ എന്തുചെയ്യും നിങ്ങൾ നേരിട്ട് നോൺ ലീനിയർ പെരുമാറ്റം ഏറ്റെടുക്കുന്നില്ല നിങ്ങൾ ഡിഫോർമേഷൻ ചെറുതാണെന്ന് അനുമാനിക്കുന്നു മാത്രമല്ല ഇത് ലീനിയർ ആണ് ഇത് നിങ്ങൾക്ക് കൂടുതൽ ലളിതമാക്കുന്നു സമാനമായ രീതിയിൽ നിങ്ങൾ മെറ്റീരിയൽ സ്വഭാവത്തെ മോഡലിംഗ് ചെയ്യാൻ ആരംഭിക്കുമ്പോൾ അത് സൌകര്യപ്രദമായിരുന്നു അതിനാൽ ഇത് ഒരു ഇലാസ്റ്റിക് തുടർച്ചയാണ് എന്ന് പരിഗണിച്ചിരുന്നു നിങ്ങളുടെ ഡിസൈൻ സമീപനങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഒരു സമീപനമുണ്ട് സ്ട്രെങ്ത് അടിസ്ഥാനമാക്കിയുള്ള ഡിസൈൻ മറ്റൊരു സമീപനമുണ്ട് സ്റ്റിഫ്നസ് അടിസ്ഥാനമാക്കിയുള്ള ഡിസൈൻ

അതിനാൽ സ്ട്രെങ്ത് അടിസ്ഥാനമാക്കിയുള്ള രൂപകൽപ്പനയിൽ നിങ്ങൾ എന്തുചെയ്യുന്നു നിങ്ങൾ ക്രോസ് സെക്ഷൻ നിർണ്ണയിക്കുകയും ഒരു മെറ്റീരിയൽ തിരഞ്ഞെടുക്കുകയും ചെയ്യും ഘടനയിലെ ഏത് ഘട്ടത്തിലും ഉണ്ടാകുന്ന സ്ട്രെസ് മെറ്റീരിയലിന്റെ യീൽഡ് സ്ട്രെസ്നെ സ്പർശിക്കുന്നില്ല പരമ്പരാഗത ഡിസൈൻ സമീപനത്തിന്റെ കാര്യത്തിൽ യീൽഡ് ഒരു പരാജയമായി നമ്മൾ ഇതിനകം കണ്ടുകഴിഞ്ഞു മെക്കാനിക്കൽ എയ്റോസ്പേസ് ഘടകങ്ങൾ മിക്കതും ഇലാസ്റ്റിക് പരിധിക്കു താഴെയാണ്

അതിനാൽ ഇത് ഒരു നല്ല ആരംഭമാണ് നിങ്ങളുടെ സ്ട്രെസ്നെ നിങ്ങൾ യീൽഡ് സ്ട്രെസ്നെക്കാൾ താഴെ പരിമിതപ്പെടുത്തുന്നു പരമ്പരാഗത രൂപകൽപ്പന സമീപനത്തിന്റെ മറ്റൊരു പ്രധാന ആകർഷണം ആരംഭിക്കുന്നതിനുള്ള യീൽഡ് സ്ട്രെങ്ത് കൊണ്ട് ആരംഭിക്കുന്നില്ല എന്നതാണ് ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന ഒരു ഘടകം നിങ്ങൾ കൊണ്ടുവരുന്നു കാരണം പ്രവർത്തന ലോഡുകൾ കണക്കാക്കുന്നതിൽ പിശകുകൾ ഉണ്ടാകാം അമിതഭാരമുണ്ടാകാം ഭൌതിക വൈകല്യങ്ങൾ ഉണ്ടാകാം അതിനാൽ ഈ വശങ്ങളെല്ലാം ശ്രദ്ധിക്കാൻ നിങ്ങൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന ആശയം കൊണ്ടുവരുന്നു

നിങ്ങൾ നിരവധി ഡിസൈനുകൾ ഉണ്ട് ഇത് 2 മുതൽ 10 വരെയാണ് ഇത് അനുവദനീയമായ പരമാവധി സ്ട്രെസ് തീരുമാനിക്കുന്നതിനും പ്രവർത്തന ലോഡുകൾ മെറ്റീരിയൽ പ്രോപ്പർട്ടികൾ ഉൽപാദന രീതികൾ എന്നിവയുടെ അനുചിതമായ മോഡലിംഗ് ശ്രദ്ധിക്കുന്നതിനും എല്ലായ്പ്പോഴും ഉപയോഗിക്കുന്നു നിങ്ങൾ ശരിക്കും തിരിഞ്ഞുനോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കേബിൾ റോപ്വേ കാറുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ള പ്രവർത്തന അവസ്ഥ ആണ് സുരക്ഷയും വളരെ പ്രധാനമാണ് മാത്രമല്ല ഇത് കാറ്റിന്റെ ആഘാതങ്ങൾക്ക് വിധേയമാവുകയും നിങ്ങൾക്ക് ഫാക്ടർ ഓഫ് സേഫ്റ്റി 10 ആണ് മറുവശത്ത് നിങ്ങൾ ഞങ്ങളുടെ അംബാസഡർ കാറുകളിൽ വന്നാൽ ഇത് ഫാക്ടർ ഓഫ് സേഫ്റ്റി 4 ആയി പ്രവർത്തിക്കുന്നു മറുവശത്ത് നിങ്ങൾ മാരുതിയെ നോക്കുകയാണെങ്കിൽ ഇത് വളരെ നേർത്ത ഷീറ്റ് മെറ്റൽ ഉപയോഗിച്ചുള്ളതാണ് കൂടാതെ ഒരു ഡിമാൻഡും ഉണ്ട് ഇന്ധന ഉപഭോഗം കുറയ്ക്കൽ അതിനാൽ അവർ ഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നു അതിനാൽ അവർ ഫാക്ടർ ഓഫ് സേഫ്റ്റി കുറക്കുന്നു ഫാക്ടർ ഓഫ് സേഫ്റ്റി വരുമ്പോൾ നിങ്ങളുടെ വിശകലനം കൂടുതൽ കൃത്യമായിരിക്കണം

വിശകലനത്തിനുള്ള ചെലവും അതിൽ നിന്ന് നിങ്ങൾ നേടുന്ന നേട്ടവും തമ്മിൽ ഒരു ബന്ധം ഉണ്ടായിരിക്കണം എയ്റോസ്പേസ് ഘടനകളിൽ നിങ്ങൾ വിശകലനം നടത്തുകയാണെങ്കിൽ നേട്ടം കൂടുതലാണ് വളരെ പരമ്പരാഗത ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് അന്തിമ ക്രോസ് സെക്ഷനിൽ ന്യായമായ മൂല്യങ്ങൾ നൽകുന്ന ഒരു പഴുതുകളില്ലാത്ത ഡിസൈൻ രീതി നിങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ വിശദമായ വിശകലനവും ലളിതമായ നടപടിക്രമവും തമ്മിൽ ഒരു ഇടപാട് നടക്കുന്നു അതിനാൽ ഡിസൈൻ സമീപനങ്ങളിലൊന്ന് നിങ്ങൾ അത് അടിസ്ഥാനമാക്കിയാണ് രൂപകൽപ്പന ചെയ്യുന്നത് നിങ്ങൾ പ്രധാനമായും ക്രോസ് സെക്ഷൻ നിർണ്ണയിക്കുന്നു നിങ്ങൾ ക്രോസ് സെക്ഷൻ കണ്ടെത്തുകയാണെങ്കിൽ ചില നിയന്ത്രണങ്ങൾ കാരണം നിങ്ങൾക്ക് പരിഷ്കരിക്കാനാവില്ല ഉയർന്ന സ്ട്രെസ് നേരിടാൻ നിങ്ങൾക്ക് ഒരു മികച്ച മെറ്റീരിയൽ തിരഞ്ഞെടുക്കാം

നിങ്ങൾക്കുള്ള മറ്റൊരു ഡിസൈൻ സമീപനം സ്റ്റിഫ്നെസ് അടിസ്ഥാനമാക്കിയുള്ള ഡിസൈനുകൾ ആണ് ഈ മെക്കാനിക്കൽ എയ്റോസ്പേസ് ഘടകങ്ങളിൽ പലതിനും ഘടകത്തിന്റെ തൃപ്തികരമായ പ്രകടനം ഡിഫ്ളക്ഷനെയോ രൂപഭേദം വരുത്തുന്നതിനെയോ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ ഡിഫ്ളക്ഷനിലെ മൂല്യങ്ങൾ നിങ്ങൾ പരിമിതപ്പെടുത്തുന്നു അതിനാൽ തന്നിരിക്കുന്ന ഡിസൈൻ സമീപനത്തിനായി ജോമട്രി എന്താണ് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ക്രോസ് സെക്ഷൻ എന്താണെന്ന് നിങ്ങൾ കണ്ടെത്തും നിങ്ങൾ ശരിക്കും നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഷാഫ്റ്റ് ഡിസൈൻ ഉള്ളപ്പോൾ ആളുകൾ മൈൽഡ് സ്റ്റീലിനായി പോകുന്നു അവിടെ അത് യഥാർത്ഥത്തിൽ ഡിഫ്ളക്ഷനാൽ നിർണ്ണയിക്കപ്പെടുന്നു നിങ്ങൾ സ്ട്രെങ്ത് കണക്കുകൂട്ടലിലൂടെ പോയാൽ നിങ്ങൾക്ക് വളരെ ചെറിയ അളവിലുള്ള ഒരു ഷാഫ്റ്റ് ഉണ്ടാകും എന്നാൽ ഡിഫ്ളക്ഷൻ വീക്ഷണകോണിൽ നിന്ന് ഇതിന് ഒരു വലിയ ഡിഫ്ളക്ഷൻ അനുഭവപ്പെടാം അതിനാൽഡിഫ്ളക്ഷൻ ക്രോസ് സെക്ഷന്റെ വലുപ്പം പരിമിതപ്പെടുത്തുന്നു അതിനാൽ നിങ്ങൾ ക്രോസ് സെക്ഷന്റെ വലിയ വലുപ്പത്തിനായി പോകും ഷാഫ്റ്റിൽ രൂപകൽപ്പന ശരിക്കും ഡിഫ്ളക്ഷൻ മൂലം നിർണ്ണയിക്കപ്പെടുന്നു കൂടാതെ ഷാഫ്റ്റിനായി നിങ്ങൾ സ്ട്രെങ്ത് കുറഞ്ഞ മെറ്റീരിയൽ ഉപയോഗിക്കുന്നു മറുവശത്ത് നിങ്ങൾക്ക് സ്പ്രിംഗ്സ് ഉണ്ട് വളരെ ഉയർന്ന കരുത്തുറ്റ വസ്തുക്കളാണ് സ്പ്രിംഗ്സ് നിർമ്മിച്ചിരിക്കുന്നത് നിങ്ങൾ ശരിക്കും നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കംപ്രഷൻ സ്പ്രിംഗ് അല്ലെങ്കിൽ ഒരു ടെൻഷൻ സ്പ്രിംഗ് ഉണ്ട് യഥാർത്ഥ പ്രയോഗത്തിൽ ഇതിൽ ശരിക്കും ഒരു ടോർഷണൽ ലോഡ് അനുഭവിക്കുന്നു അതിനാൽ നിങ്ങൾ ഇത് ഷിയർനായി രൂപകൽപ്പന ചെയ്യുന്നു അതിനാൽ നിങ്ങൾ ഡിസൈനിൽ ഒരു കോഴ്സ് ചെയ്തു വ്യത്യസ്ത ആപ്ലിക്കേഷനുകൾക്കായി വ്യത്യസ്ത മെറ്റീരിയലുകൾ ഉപയോഗിക്കുന്നു ഷാഫ്റ്റുകൾ മൈൽഡ് സ്റ്റീൽ കൊണ്ട് മാത്രമാണ് നിർമ്മിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു സ്പ്രിംഗ് ഉണ്ടാകുമ്പോൾ അത് എല്ലായ്പ്പോഴും ഉയർന്ന കരുത്തുള്ള ഉരുക്ക് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അതിനാൽ ഇവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എനിക്ക് ആപേക്ഷികമായി ചലിക്കുന്ന ഭാഗങ്ങൾ ഉള്ളപ്പോൾ ഡിഫ്ളക്ഷൻ അല്ലെങ്കിൽ രൂപഭേദം വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു കാരണം നിങ്ങൾ വളരെ അടുത്ത ടോളറൻസ് നില നിലനിർത്തുകയും സ്റ്റിഫ്നെസ് അടിസ്ഥാനമാക്കി രൂപകൽപ്പന ചെയ്യുകയും വേണം ഡിസൈനിനോടുള്ള ഈ സമീപനങ്ങളെല്ലാം മെറ്റീരിയൽ വൈകല്യങ്ങളോ കുറവുകളോ ഇല്ലാതെ ഒരു ഇലാസ്റ്റിക് തുടർച്ചയാണ് എന്ന അനുമാനത്തിൽ ആണ് ഇത് പൂർണ്ണമായും സൌകര്യത്തിന് പുറത്താണ് മറ്റൊരു കാരണവുമില്ല അവർക്ക് മികച്ച ഗണിത മാതൃകയും ലളിതവൽക്കരിച്ച സമീപനങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു പോരായ്മയുണ്ടാകുമ്പോൾ എന്തു സംഭവിക്കുമെന്നതും അവർ സംയോജിപ്പിക്കുമായിരുന്നു പ്രാരംഭ രൂപകൽപ്പന സമീപനങ്ങൾ മീഡിയം ഇലാസ്റ്റിക് തുടർച്ചയായി പരിഗണിക്കുന്നതിൽ പരിമിതപ്പെടുത്തി ഇത് നന്നായി പ്രവർത്തിച്ചു ഇതിനെ അടിസ്ഥാനമാക്കി നിങ്ങൾക്ക് ചിലതരം എഞ്ചിനീയറിംഗ് ചെയ്യാൻ കഴിയും എന്നാൽ ഇപ്പോൾ സ്ഥിതി എന്താണ് ഓപ്പറേറ്റിങ് താപനില വിരുദ്ധമായ ചുറ്റുപാടുകൾ ലോഡിംഗ് തരങ്ങൾ എന്നിവയിൽ ആധുനിക ഘടനാപരമായ അന്തരീക്ഷം കൂടുതൽ സങ്കീർണ്ണമാണെന്ന് കാണാം ആളുകൾ ബഹിരാകാശത്ത് പോയി ഭൂമിയിലേക്ക് മടങ്ങിവരുന്നതായി നിങ്ങൾ കാണുന്നു അതിനാൽ അവ ഭൂമിയിലേക്കുള്ള അതിർത്തി കടന്നു വരുമ്പോൾ വളരെ ഉയർന്ന താപനില വികസിപ്പിക്കുകയും ചെയ്യുന്നു ഇത് 1600 ഡിഗ്രി സെന്റിഗ്രേഡിന്റെ ക്രമത്തിലാണ് അത്തരം ഓപ്പറേറ്റിങ് അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ഒരിക്കലും സ്വപ്നം കണ്ടിട്ടില്ല നമുക്ക് ക്രയോജനിക് എഞ്ചിനുകൾ ഉണ്ട് അതിനാൽ പരമ്പരാഗത ഡിസൈൻ സമീപനങ്ങളിൽ ആദ്യം കരുതിയിരുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ആവശ്യങ്ങൾ നമുക്കുണ്ട് കൂടാതെ നമ്മൾ എന്തുചെയ്യുന്നു ഒപ്റ്റിമൈസേഷൻറെ ആവശ്യകതയുമുണ്ട് ഈ ഒപ്റ്റിമൈസേഷൻ ആവശ്യകതകൾ ഘടനകളുടെ ഭാരം കുറയ്ക്കുന്നതിന് കാരണമായി ഇത് ഓപ്പറേറ്റിങ് സ്ട്രെസ് ലെവലുകൾ വർദ്ധിപ്പിക്കും അതിനാൽ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒരു ഘടന നിർമ്മിക്കുന്നതിനായി ഞാൻ ഉപയോഗിച്ച മെറ്റീരിയലിൽ നിന്ന് പരമാവധി പുറത്തെടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് ഒരു ട്രേഡ്ഓഫ് വേണം അതിനാൽ ഒപ്റ്റിമൈസ് ചെയ്ത ഘടനകൾ നമ്മൾ ആഗ്രഹിക്കുന്നു കൂടുതൽ വിശകലനം ചെയ്യണം എന്നാണ് ഇതിനർത്ഥം ഞാൻ കൂടുതൽ വിശകലനം ചെയ്യുമ്പോൾ യാഥാർത്ഥ്യത്തിലേക്ക് കൂടുതൽ അടുക്കണം ഭൌതിക വൈകല്യങ്ങളോ അന്തർലീനമായ കുറവുകളോ നിങ്ങൾ അവഗണിക്കുകയാണെങ്കിൽ അത് തീർച്ചയായും ആകസ്മിക പരാജയങ്ങളിലേക്ക് നയിക്കും വാസ്തവത്തിൽ അതാണ് സംഭവിച്ചത് അവസാനമായി എഞ്ചിനീയറിംഗ് ഘടനകളുടെ വിജയകരമായ രൂപകൽപ്പന നടത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദീർഘകാല ആയുസ്സിന് നിരവധി കാര്യങ്ങൾ ആവശ്യമാണ് ഇതിന് പരാജയങ്ങളുടെ വ്യത്യസ്ത രീതികളെക്കുറിച്ചും അധപതന സംവിധാനങ്ങളെ കുറിച്ചും മനസ്സിലാക്കേണ്ടതുണ്ട് പരമ്പരാഗത രൂപകൽപ്പനയിൽ ഇത് ഒരിക്കലും മനസ്സിലാകില്ല ആധുനിക രൂപകൽപ്പനയിൽ അധപതന സംവിധാനങ്ങളുണ്ട് ഇത് അടിസ്ഥാനപരമായി ഡാമേജ് ടോളറൻസ് അപ്രോച്ച് ഇൽ വ്യത്യാസമുണ്ടാക്കുന്നു അതിനാൽ നിങ്ങൾ ഡിഗ്രഡഷൻ അധപതന സംവിധാനങ്ങൾ മനസിലാക്കണം അവ എന്തൊക്കെയാണ്

പ്രവർത്തന ലോഡുകൾ മൂലമുണ്ടാകുന്ന വിള്ളൽ വളർച്ച ദ്രവിക്കൽ മൂലമുള്ള പ്രശ്നങ്ങൾ മെറ്റീരിയൽ ബ്രിട്ടിൽ ആകുന്നത് മൂലം ഉള്ള പ്രത്യേക പ്രശ്നം ഒരു പ്രധാന കാരണം ഹൈഡ്രജൻ ഉൾച്ചേർക്കലാണ് ഇന്ധന സെല്ലുകളിൽ ഹൈഡ്രജൻ എൻട്രാപ്മെന്റ് കാരണം ഘടന ബ്രിട്ടിൽ ആകുന്നതാണ് ഒരു പ്രധാന പോരായ്മ നമുക്ക് ഇപ്പോൾ ന്യൂക്ലിയർ പവർ ഉണ്ട് അവിടെയുള്ള പ്രധാന പ്രശ്നം ഇർറേഡിയേഷൻ മൂലമുണ്ടായ കേടുപാടുകളാണ് അതിനാൽ ഇവയെല്ലാം ഡിഗ്രഡേഷൻ സംവിധാനങ്ങളാണ് ഡിഗ്രഡേഷൻ സംവിധാനങ്ങൾ നിങ്ങൾ മനസിലാക്കുന്നില്ലെങ്കിൽ ഈ സംവിധാനങ്ങൾക്കെതിരെ മതിയായ മാർജിനുകൾ നൽകാൻ നിങ്ങൾക്ക് കഴിയില്ല അതിനാൽ നിങ്ങൾക്കത് അറിയാമെങ്കിൽ ഡിസൈൻ ഘട്ടത്തിൽ തന്നെ അത് ഉൾപ്പെടുത്താം അതിനാൽ ആധുനിക രൂപകൽപ്പനയ്ക്ക് ഡിഗ്രഡേഷൻ സംവിധാനങ്ങളുടെ പ്രശ്നം പരിഹരിക്കേണ്ടതുണ്ട് എന്നതാണ് ആശയം ഫ്രാക്ചർ മെക്കാനിക്സ് ശരിക്കും ഏറ്റെടുക്കുന്നതിന് മുമ്പ് നമുക്ക് പ്രശസ്തമായ പരാജയങ്ങൾ നോക്കാം പ്രശസ്തമായ പരാജയങ്ങളുടെ പട്ടിക എന്തുകൊണ്ടാണ് അവയെ പ്രശസ്തമായ പരാജയങ്ങൾ എന്ന് വിളിക്കുന്നത് എഞ്ചിനീയറിംഗ് കമ്മ്യൂണിറ്റിയെ ഇരുന്ന് നിലവിലുള്ള ഡിസൈൻ നടപടിക്രമങ്ങൾ വിലയിരുത്താൻ പ്രേരിപ്പിച്ച പ്രധാന പരാജയങ്ങൾ നമ്മൾ പരിശോധിക്കാൻ പോകുന്നു അവ വളരെ പ്രധാനപ്പെട്ട പരാജയങ്ങളായിരുന്നു ബോസ്റ്റൺ മോളാസസ് ടാങ്ക് പരാജയം ഒരു പ്രശസ്ത പരാജയം ആയിരുന്നു ഇത് സംഭവിച്ചത് 1919 ലാണ് വാസ്തവത്തിൽ70 വർഷത്തിനിടയിൽ അത്തരം 4 പരാജയങ്ങളുടെ ഒരു പട്ടിക ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോകുന്നു ബോസ്റ്റൺ മോളാസസ് ടാങ്ക് പരാജയത്തിൽ എന്താണ് പ്രധാനം നിങ്ങൾ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ കരിമ്പിന്റെ ഫാക്ടറി മുറിച്ചുകടന്നാൽ നിങ്ങൾക്ക് മോളാസസുകളുടെ ഗന്ധമുണ്ട് അത് സുഖകരമായ ഒരു മണം അല്ല ചില പരാജയങ്ങൾ പ്രശസ്തമാണ് അതിന്റെ കുപ്രസിദ്ധി കാരണം ആളുകൾ വർഷങ്ങളായി ഓർമ്മിക്കുന്നു മോളാസസ് ടാങ്ക് പരാജയപ്പെട്ടത് മൂലം ബോസ്റ്റണിലെ ചില ഭാഗങ്ങളിൽ ഒരു ഗന്ധം അവശേഷിപ്പിച്ചു അത് ദുരന്തത്തിന് ശേഷം പതിറ്റാണ്ടുകളായി തുടർന്നു അതിനാൽ ആളുകൾക്ക് അത്തരമൊരു കാര്യം സംഭവിച്ചുവെന്ന കാര്യം മറക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽപ്പോലും ഗന്ധം അവരെ ഓർമ്മപ്പെടുത്തും അതിനാൽ ഇത് വളരെ പ്രധാനപ്പെട്ടതായിത്തീരുന്നു എന്താണ് സംഭവിച്ചത് ഇത് എങ്ങനെ സംഭവിച്ചു എന്തുകൊണ്ട് സംഭവിച്ചു എന്നൊക്കെ നിങ്ങൾ അന്വേഷണം നടത്തണം അതിനാൽ പുതിയ ഡിസൈൻ സമീപനങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും ആവിഷ്കരിക്കാനും ആ എഞ്ചിനീയറിംഗ് കമ്മ്യൂണിറ്റിയെ പ്രേരിപ്പിച്ചത് ഇതാണ് മറ്റൊരു പ്രസിദ്ധമായ പരാജയം ലിബർട്ടി കപ്പൽ പരാജയമായിരുന്നു ഇത് 1942 മുതൽ 1946 വരെയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ആവശ്യകതകൾ കപ്പലുകളുടെ വേഗത്തിലുള്ള ഉൽപാദനത്തിന് എല്ലാ വെൽഡെഡ് രൂപകൽപ്പനയിലേക്കും സമ്മർദ്ദം ചെലുത്തി അതിനുമുമ്പ് ആളുകൾ റിവറ്റഡ് രൂപകൽപ്പന ചെയ്ത കപ്പലുകൾ ഉണ്ടാക്കിയിരുന്നു മാത്രമല്ല ഒരു കപ്പൽ നിർമ്മിക്കാൻ കുറച്ച് സമയമെടുക്കും അവർ വെൽഡെഡ് ഡിസൈനിലേക്ക് മാറിയപ്പോൾ അവർക്ക് വേഗത്തിൽ കപ്പലുകൾ നിർമ്മിക്കാൻ കഴിഞ്ഞു അവർ അതിന് കനത്ത വിലയും നൽകി സംഭവിച്ചത് കപ്പലുകൾ പരാജയപ്പെട്ടു യാതൊരു നിയന്ത്രണവുമില്ലാതെ പരാജയം സംഭവിച്ചു വാസ്തവത്തിൽ ഈ ദുരന്തങ്ങൾ ഓരോന്നും ഒന്നിനുപുറകെ ഒന്നായി നാം കാണും

ഇപ്പോൾ നമുക്ക് ഒരു ഹ്രസ്വ സംഗ്രഹം മാത്രമേയുള്ളൂ പിന്നീട് ഈ പരാജയങ്ങളിൽ ചിലത് നമുക്ക് വിശദമായി പരിശോധിക്കാം കോമറ്റ് ദുരന്തമാണ് നാം നോക്കുന്ന മറ്റൊരു ദുരന്തം 1954 ലാണ് ഇത് സംഭവിച്ചത് കോമറ്റ്ന്റെ പ്രാധാന്യം പ്രവർത്തനത്തിൽ ഏർപ്പെടുത്തിയ ആദ്യത്തെ വാണിജ്യ ജെറ്റ് ലൈനർ ഇതാണ് അതുവരെ അവയെല്ലാം പ്രൊപ്പല്ലർ വിമാനങ്ങൾ മാത്രമായിരുന്നു ഇത് ഒരു ജെറ്റ് ലൈനർ ആയതിനാൽ നിരവധി നൂതന ഡിസൈനുകൾ ലിറ്റ്മസ് പരിശോധനയ്ക്ക് വിധേയമാക്കി എന്താണ് പ്രശ്നം ഇത് എങ്ങനെ കണ്ടെത്തി എങ്ങനെ പരിഹരിച്ചു നടത്തി എന്ന് നമ്മൾ കാണും അടുത്തകാലത്ത് 1988 ൽ നിങ്ങൾക്ക് അലോഹ എയർലൈൻസ് ബോയിംഗ് ഫ്യൂസ്ലേജ് പരാജയം സംഭവിച്ചു ഇത് ശരിക്കും ദ്രവിക്കലിനെ ഫലമായി ഘടനകളുടെ ത്വരിതപ്പെടുത്തിയ പഴക്കത്തെ കാണിച്ചു ആളുകൾ അവരുടെ രൂപകൽപ്പനയിൽ ദ്രവിക്കലിനെ പൂർണ്ണമായും അവഗണിച്ചു അതിനാൽ ഒന്നിനുപുറകെ ഒന്നായി പരാജയപ്പെടും ബോസ്റ്റൺ മോളാസസ് പരാജയത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ പരിശോധിക്കും ബോസ്റ്റൺ മോളാസസ് പരാജയത്തെ പറ്റി ഒരു ചർച്ച സംഭവിച്ചത് മുന്നറിയിപ്പില്ലാതെയാണ് അതാണ് പ്രധാന വശം നിങ്ങൾ ഒരു ടെൻഷൻ പരിശോധന കണ്ടു നിങ്ങൾ ഒരു മൈൽഡ് സ്റ്റീൽ മാതൃക അല്ലെങ്കിൽ ഒരു ഡക്റ്റൈൽ മാതൃക എടുത്ത് വലിക്കുക നിങ്ങൾക്ക് ഒരു കുഷനിങ്ങ് ഉണ്ട് പരാജയപ്പെടുന്നതിന് മുമ്പ് അത് വിപുലമായ പ്ലാസ്റ്റിക് വികലത്തിലൂടെ കടന്നുപോകുന്നു അതിനാൽ നമ്മൾ സ്വാഭാവികമായും ഒരു ഘടനയിൽ നിന്ന് ഒരു ഘടന നിർമ്മിക്കുമ്പോൾ അത് പരാജയപ്പെടുന്നതിന് മുമ്പ് അത് നിങ്ങൾക്ക് ഒരുതരം മുന്നറിയിപ്പ് നൽകും എന്ന് ഉറച്ചിരുന്നു മോളാസസ് ദുരന്തത്തിന്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് മുന്നറിയിപ്പില്ലാതെ 1919 ജനുവരിയിൽ ബോസ്റ്റണിലേക്ക് മോളാസസ് തിരയടിച്ചുയർന്നു ഭയാനകമായ ഒരു വെള്ളപ്പൊക്കം നഗരത്തിന്റെ വിശാലമായ പ്രദേശത്തെ നശിപ്പിച്ചു

സുനാമി വരുന്നു നിങ്ങൾക്ക് സമുദ്രജലം രാജ്യത്തെ ചുറ്റിപ്പറ്റിയാണ് ഇത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ ഇപ്പോൾ അത്തരം ദുരന്തങ്ങൾ നാം കേൾക്കുന്നു നഗരങ്ങളെ പൂർണമായും മുക്കിയ അഗ്നിപർവ്വതങ്ങളും ഉണ്ടായിട്ടുണ്ട് ആ ദുരന്തങ്ങളെല്ലാം സംഭവിച്ചു എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങളോട് പറയാൻ ആരും അവശേഷിച്ചില്ല എന്നാൽ ബോസ്റ്റൺ മോളാസസ് പരാജയത്തിൽ അസാധാരണമായി മോളാസസുകളുടെ ഒരു പ്രവാഹം നഗരത്തെ ബാധിച്ചു നിങ്ങൾക്ക് 2 3 ദശലക്ഷം ഗാലൺ ബോസ്റ്റൺ മോളാസസ് ടാങ്ക് ഉണ്ടായിരുന്നു അത് പരാജയപ്പെടുന്ന സമയത്ത് 3 വയസ്സ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ ഇതാണ് സഹതാപം തോന്നുന്നത് സാധാരണയായി നിങ്ങൾ ഒരു ഘടന രൂപകൽപ്പന ചെയ്യുമ്പോൾ അത് 50 മുതൽ 60 വർഷം വരെ നിൽക്കാൻ ആഗ്രഹിക്കുന്നു വെറും 3 വർഷത്തിനുള്ളിൽ ഒരു പരാജയം സംഭവിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല ടാങ്ക് വളരെ വലുതാണ് 50 അടി ഉയരവും 90 അടി വ്യാസവുമുണ്ടായിരുന്നു ഇതിൻറെ ഒരു വലുപ്പം നൽകുന്നതിനും ഈ ദുരന്തത്തിന് വ്യാപ്തി മനസ്സിലാക്കുന്നതിനും ഈ ചിത്രം നൽകുന്നു നൽകുന്നു ഇത് ബോസ്റ്റൺ ലൈബ്രറിയിൽ നിന്നെടുത്തതാണ്

പരാജയം എങ്ങനെ സംഭവിച്ചുവെന്ന് ശരിക്കും നോക്കുക ഇടിമുഴക്കം പോലൊരു വിള്ളലും ആയി ടാങ്ക് വേർപെട്ടു 14000 ടൺ മോളാസസുകൾ നാശത്തിന് കാരണമായി മണിക്കൂറിൽ 40 മുതൽ 56 കിലോമീറ്റർ വേഗതയിലാണ് മോളാസസുകൾ സഞ്ചരിച്ചത് വൃത്തിയാക്കാൻ എളുപ്പമല്ലായിരുന്നു സ്ഥലം വൃത്തിയാക്കാൻ ആറുമാസമെടുത്തു ഇത് മാത്രമല്ല വൃത്തിയാക്കിയ ശേഷം മണം ഇല്ലായിരുന്നുവെങ്കിൽ ആളുകൾ ബോസ്റ്റൺ മോളാസസ് ദുരന്തം മറക്കുമായിരുന്നു പതിറ്റാണ്ടുകളായി മണം തുടർന്നുകൊണ്ടിരുന്നു എന്നതാണ് വിഷമകരം വാസ്തവത്തിൽ മോളാസസുകൾ നിലത്തുനിന്ന് പുറത്തേക്ക് ഒഴുകുന്നത് തുടരുകയും 30 വർഷമായി നടപ്പാതകളിൽ വിള്ളലുകൾ വീഴുകയും ചെയ്തു അതിനാൽ നിങ്ങൾ മറക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽപ്പോലും നിങ്ങൾക്ക് ഇത് മറക്കാൻ കഴിയില്ല ബോസ്റ്റണിലെ വ്യതിരിക്തമായ ഈ അന്തരീക്ഷവും ഗന്ധവും പതിറ്റാണ്ടുകളായി തുടർന്നു വിനാശം എങ്ങനെയായിരുന്നു എന്നതിന്റെ മറ്റൊരു ചിത്രം ഇത് കാണിക്കുന്നു ഇത് വീണ്ടും ബോസ്റ്റൺ പബ്ലിക് ലൈബ്രറിയിൽ നിന്നാണ്

ReferSlide Time 2513 എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം ആദ്യം 15 മില്ലിമീറ്റർ കട്ടിയുള്ള സ്റ്റീൽ പ്ലേറ്റുകളാണ് ടാങ്ക് നിർമ്മിച്ചത് 15 മില്ലിമീറ്റർ കനം വളരെ വലുതാണ് എന്ന് നിങ്ങൾക്കറിയാം അതിനാൽ ഞാൻ വളരെ കട്ടിയുള്ള പ്ലേറ്റിൽ നിന്നാണ് നിർമ്മിച്ചത് ഞാൻ എന്തിന് വിഷമിക്കണം എന്നൊരു ചിന്തയായിരുന്നു പക്ഷേ എന്താണ് സംഭവിച്ചത് സ്ഫോടനത്തിന് മുമ്പ് ടാങ്കിന്റെ ഉടമ അത് തവിട്ട് നിറത്തിൽ ആക്കി ഇതും നോക്കുന്നു പരാജയ വിശകലനം നിങ്ങൾ നോക്കുമ്പോൾ ഏത് തരത്തിലുള്ള തെറ്റുകൾ സംഭവിച്ചു എന്ന് ആളുകൾ കണ്ടുപിടിക്കാൻ ആഗ്രഹിക്കുന്നു മോളാസസുകളുടെ നിറം എന്താണ് മോളാസസ് തവിട്ടുനിറമാണ് അത് അറിയാതെ ടാങ്കിന്റെ ഉടമ അത് തവിട്ട് നിറത്തിലാക്കി ഫലം ഒരു ചോർച്ചയുണ്ടെങ്കിലും അത് കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ടാങ്കിൽ ഒരു ചോർച്ചയുണ്ട് ടാങ്ക് വളരെ വലുതാണ് നിറത്തിന് ഒരു ദൃശ്യതീവ്രത ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് കാണാൻ കഴിയില്ല വാസ്തവത്തിൽ ആധുനിക രൂപകൽപ്പനയിൽ പരാജയത്തിന് മുമ്പുള്ള ലീക്ക് എന്നറിയപ്പെടുന്നു എല്ലാ ആണവോർജ്ജ ഇൻസ്റ്റാളേഷനുകളിലും ഇത് നിർബന്ധമാണ് ഹീറ്റ് എക്സ്ചേഞ്ചർ ട്യൂബുകൾ L B B മാനദണ്ഡങ്ങളിലൂടെ കടന്നുപോകണം ബോസ്റ്റൺ മോളാസസ് പരാജയത്തിൽ ടാങ്ക് ചോർന്നോ എന്ന് പരിശോധിക്കാൻ ഒരു സാധ്യതയുമില്ല അത് ഒരു സൂചനയാണ് ചില ശക്തിപ്പെടുത്തൽ നടത്തേണ്ടതുണ്ട് അല്ലെങ്കിൽ മോളാസസുകൾ നീക്കംചെയ്യേണ്ടതുണ്ട് അത് ടാങ്കിലെ സമ്മർദ്ദം വർദ്ധനവിനെ കുറയ്ക്കുകയും ചെയ്യും ഇത് വളരെ പ്രധാനമാണ് നിങ്ങളുടെ ഇൻഡെയ്ൻ പാചക വാതകം നോക്കുകയാണെങ്കിൽ അത് യഥാർത്ഥത്തിൽ ഗന്ധമില്ലാത്തതാണ് ആളുകൾ ആ ഗന്ധം ചേർത്തു അതിനാൽ ഒരു ചോർച്ചയുണ്ടെങ്കിൽ നിങ്ങൾ അതിൻറെ ഗന്ധം ഉപയോഗിച്ച് പ്രതികരിക്കുകയും തിരുത്തൽ നടപടികൾ കൈക്കൊള്ളുകയും ചെയ്യും ഒന്നുകിൽ നിങ്ങൾ പോയി വിൻഡോകൾ തുറക്കുക ലൈറ്റ് ഓൺ ചെയ്യരുത് നിങ്ങൾക്ക് മുന്നറിയിപ്പ് ലഭിക്കുകയാണെങ്കിൽ ചില തിരുത്തൽ സംവിധാനം സാധ്യമാണ് അതിനാൽ എല്ലാ ന്യൂക്ലിയർ പവർ ഇൻസ്റ്റാളേഷനുകളിലും L B B മാനദണ്ഡം വളരെ പ്രധാനമാണ് എന്നിട്ട് എന്ത് സംഭവിച്ചു അപകടത്തിന് തലേദിവസം താപനില മൈനസ് 17 ഡിഗ്രി സെന്റിഗ്രേഡും സംഭവ ദിവസം 4 5 ഡിഗ്രി സെന്റിഗ്രേഡും ആയതിനാൽ പെട്ടെന്നുള്ള താപനില വ്യതിയാനം സംഭവിച്ചു എന്ന് പരാജയ അന്വേഷകർ കണ്ടെത്തി അതിനാൽ ഒരു തെർമൽ ഷോക്ക് ഉണ്ട് ഇത് പരാജയത്തെ വേഗത്തിലാക്കി അവർ എന്താണ് നിഗമനം ചെയ്തത് പരമ്പരാഗത രൂപകൽപ്പനയിൽ അവർക്ക് മനസ്സിലാകാത്തതെന്തും അവർ അതിനെ ഫാക്ടർ ഓഫ് സേഫ്റ്റി ആയി പരിഗണിക്കുന്നു ഇത് 1920 ലാണ് സംഭവിച്ചത് ആ ദിവസങ്ങളിൽ ആളുകൾ മോളാസാസുകൾ വികസിപ്പിക്കുന്നതിലൂടെ സൃഷ്ടിച്ച സമ്മർദ്ദത്തെ നേരിടാൻ രൂപകൽപ്പന അപര്യാപ്തമാണെന്ന് കണ്ടെത്തി ഉപയോഗിച്ച ഫാക്ടർ ഓഫ് സേഫ്റ്റി കുറവാണെന്ന് കണക്കാക്കപ്പെട്ടു ഇത് വളരെ നിസ്സാരമായ ഒരു നിഗമനമാണ് കാരണം അവ ഫാക്ടർ ഓഫ് സേഫ്റ്റി കൊണ്ടുവരാൻ ഉപയോഗിച്ചു അത് പരാജയപ്പെട്ടതായി അവർ നിഗമനത്തിലെത്തി അതിനാൽ എന്തോ തെറ്റായി സംഭവിച്ചു അതിനാൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി വർദ്ധിപ്പിക്കുക ഇത് പ്രശ്നം പരിഹരിക്കാൻ പോകുന്നില്ല കാരണം നിങ്ങൾ ശരിക്കും പ്രശ്നത്തിന്റെ മൂലകാരണം നോക്കുന്നില്ല ഇത് നിങ്ങളുടെ ഡിസൈൻ സമീപനങ്ങളിലെ പുറംമോടിയിൽ മാത്രമാണു മാറ്റങ്ങൾ ചെയ്തത് ലിബർട്ടി കപ്പൽ പരാജയത്തെ പറ്റിയുള്ള ചർച്ച ലിബർട്ടി കപ്പലുകൾ മൂലം ജനങ്ങൾക്ക് വളരെ മോശം അനുഭവം ഉണ്ടായി 5000 ലധികം ലിബർട്ടി കപ്പലുകളും T 2 ടാങ്കറുകളും രണ്ടാം ലോകമഹായുദ്ധസമയത്ത് വൻതോതിൽ ഉൽപാദിപ്പിക്കപ്പെട്ടു ഇത് വളരെ പ്രധാനമാണ് കപ്പൽ നിർമ്മാണ ചരിത്രത്തിൽ ഇത് പ്രത്യക്ഷപ്പെടുന്നു ഇത്രയും വലിയ എണ്ണം കപ്പലുകൾ നിർമ്മിക്കാൻ സമാന രൂപകൽപ്പന ഉപയോഗിച്ചു എന്ന് നിങ്ങൾ എവിടെയും കാണുന്നില്ല കപ്പലുകൾ വിജയകരമായിരുന്നുവെങ്കിൽ ആരും വിഷമിക്കുക ഇല്ലായിരുന്നു പക്ഷേ പരാജയങ്ങൾ ജ്യോതിശാസ്ത്രപരമായിരുന്നു മുഴുവൻ ശാസ്ത്ര സമൂഹവും ഈ പരാജയങ്ങൾ എങ്ങനെ സംഭവിച്ചു എന്നതിൽ വ്യക്തതയില്ലാത്തവരായിരുന്നു അതിൽ നമ്മൾ ലജ്ജിക്കണം നിങ്ങൾ പരാജയങ്ങൾ നോക്കുന്നു 5000 കപ്പലുകളിൽ ആയിരത്തിന് കാര്യമായ പരാജയങ്ങൾ സംഭവിച്ചു വാസ്തവത്തിൽ അവയിൽ ചിലത് 2 ആയി തകർന്നു ഒരു കപ്പൽ 2 ആകുന്നതായി സങ്കൽപ്പിക്കുക അത് അതിന്റെ ഏറ്റവും അപകടകരമായ ഭാഗമാണ് അതിനാൽ 1942 നും 46 നും ഇടയിൽ ആയിരക്കണക്കിന് കപ്പലുകൾ ഈ പരാജയം അനുഭവിച്ചു അക്കാലത്ത് അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത് കുറഞ്ഞ താപനില ആയിരുന്നു കാരണം എന്നതാണ് 1942 മുതൽ 52 വരെ അവർ ചില രീതിശാസ്ത്രവും മെച്ചപ്പെടുത്തി 200 കപ്പലുകൾക്കു ഈ സമയപരിധിയിൽ ഗുരുതരമായ പരാജയങ്ങൾ സംഭവിച്ചു അതിനാൽ എന്താണ് സംഭവിച്ചതെന്ന് തീർച്ചയായും നിങ്ങൾ നോക്കേണ്ടതുണ്ട് നിരീക്ഷണം വെൽഡഡ് കപ്പലുകളുടെ പരാജയ നിരക്ക് വടക്കൻ അറ്റ്ലാന്റിക് സ്ഥിതിവിവരക്കണക്കിൽ ജ്യോതിശാസ്ത്രപരമായിരുന്നു അതേസമയം അക്ഷരാർത്ഥത്തിൽ ദക്ഷിണ പസഫിക്കിലെ ചൂടുകൂടിയ വെള്ളത്തിൽ ഇല്ല അതെ ഇത് കുറഞ്ഞ താപനിലയുമായി ബന്ധപ്പെട്ട കാര്യമാണ് എന്ന് അവർ മനസ്സിലാക്കി കുറഞ്ഞ താപനില ഒരു കാരണമാണ് കൂടാതെ നിങ്ങൾക്ക് വെൽഡഡ് കപ്പലുകളും ഉണ്ട് മുമ്പ് കപ്പലുകൾ റിവേറ്റഡ് സന്ധികളാൽ നിർമ്മിച്ചതും റിവേറ്റഡ് സന്ധികളിൽ നിന്നും വെൽഡിംഗിലേക്ക് മാറ്റിയപ്പോൾ ആദ്യം അവർ നിരീക്ഷിച്ചത് ഭാരം കുറയ്ക്കലായിരുന്നു മറ്റൊന്ന് കപ്പൽ കെട്ടിച്ചമയ്ക്കുന്നതിൽ വളരെ വേഗത ഒരാഴ്ചയ്ക്കുള്ളിൽ അവർക്ക് ഒരു കപ്പൽ നിർമ്മിക്കാൻ കഴിയുമെന്ന് ഞാൻ പറഞ്ഞു യുദ്ധ ആവശ്യകതകൾക്ക് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കൂടുതൽ കൂടുതൽ കപ്പലുകൾ സൃഷ്ടിക്കേണ്ടതുണ്ട് പക്ഷേ ഫലം നിരവധി പരാജയങ്ങൾ ഉണ്ടായിരുന്നു അത് പരിശോധിക്കേണ്ടതുണ്ട് കാരണം കണ്ടെത്തേണ്ടതുണ്ട് വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ എത്ര കപ്പലുകൾ അപ്രത്യക്ഷമായി എന്ന് ആർക്കും കൃത്യമായി അറിയില്ലെന്നും പരാമർശമുണ്ട് കുറഞ്ഞ താപനില സ്റ്റീൽന്റെ പെട്ടെന്നുള്ള പൊട്ടലിന് കാരണമാകുമെന്ന് എഞ്ചിനീയറിംഗ് സമൂഹത്തിന് വ്യക്തതയില്ലായിരുന്നു വാസ്തവത്തിൽ നാവികസേന ഒരു കമ്മിറ്റി ഒരു ബോർഡ് രൂപീകരിച്ചു ഇതിൻറെ വിശദാംശങ്ങളിലേക്ക് പോയി അത്തരം പരാജയങ്ങൾക്ക് യഥാർത്ഥത്തിൽ കാരണമായത് എന്താണെന്ന് കണ്ടെത്താനും ശുപാർശകൾ നൽകുവാനും വാസ്തവത്തിൽ എനിക്ക് ആ റിപ്പോർട്ടിലേക്ക് ആക്സസ് ഉണ്ട് പ്രോജക്റ്റ് ലിബർട്ടി ഷിപ്പ് പ്രോഗ്രാമിന് നന്ദി കൂടുതൽ വെളിപ്പെടുത്തുന്ന ആമുഖം ഞാൻ വായിക്കും ഞാൻ അതിൽ നിന്ന് നേരിട്ട് വായിക്കുന്നു ആമുഖം ഇതുപോലെ ആരംഭിക്കുന്നു 'യുദ്ധത്തിന്റെ തുടക്കത്തിൽ വെൽഡ് ചെയ്ത വ്യാപാര കപ്പലുകൾക്ക് ഫ്രാക്ചർ രൂപത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടു അത് വിശദീകരിക്കാൻ കഴിയുകയില്ല ഫ്രാക്ചർ മിക്കപ്പോഴും സ്ഫോടനാത്മക പെട്ടെന്നുള്ള പ്രകടനത്തിലൂടെ പ്രകടമാവുകയും ബ്രിട്ടിൽ വസ്തുവിൻറെ സവിശേഷതകൾ പ്രകടിപ്പിക്കുകയും ചെയ്തു ഇത് കപ്പൽ സ്റ്റീൽ പോലുള്ള സാധാരണ ഡക്റ്റൈൽ മെറ്റീരിയലിന്റെ പെരുമാറ്റവുമായി സാധാരണ ബന്ധപ്പെട്ടിട്ടില്ല അതിനാൽ അവർ ഒരു കമ്മിറ്റി രൂപീകരിച്ചു അവർ എന്തുചെയ്യണമെന്ന് കമ്മിറ്റിക്ക് ഒരു നിർദേശം നൽകി അതും വളരെ പ്രധാനമാണ് ആളുകൾ ഇത് എങ്ങനെ നോക്കിക്കാണുന്നു എന്നത് കാണാൻ വളരെ സന്തോഷമുണ്ട് ഒരു പരാജയം സംഭവിക്കുമ്പോൾ രണ്ട് വഴികളുണ്ട് ശാസ്ത്രജ്ഞർ വളരെ ഉപയോഗശൂന്യരാണെന്ന് നമ്മൾ അപലപിക്കുന്നു നമ്മൾ അവർക്ക് നൽകിയ ധനസഹായം എന്തുതന്നെയായാലും അത് വെറുതെയായി എന്ന് അവരെ കുറ്റംവിധിച്ച് നിങ്ങളുടെ ജീവിതവുമായി പോകുക ഇത് ഒരു സമീപനമാണ് നമ്മൾ ഇന്ത്യയിൽ സാധാരണയായി കണ്ടുവരുന്നു നിങ്ങൾക്ക് GLSV പരാജയം ഉണ്ടായപ്പോൾ ആളുകൾ ആദ്യം ചിരിച്ചു ആധുനിക സാങ്കേതികവിദ്യ കൈകാര്യം ചെയ്യുമ്പോൾ ഉള്ള ശരിയായ പ്രശ്നം എന്താണെന്ന് അവർ മനസ്സിലാക്കിയില്ല ആളുകൾ സഹതാപം കാണിക്കുകയും അതോടൊപ്പം ഡാറ്റ വിശകലനം ചെയ്യുന്നതിന് ശരിയായ മാർഗം നൽകുകയും പ്രശ്നത്തിൽ നിന്ന് പുറത്തുവരുകയും വേണം 5000 കപ്പലുകളിൽ 1000 കപ്പലുകൾ തകരുന്നത് ഒന്നു സങ്കൽപ്പിച്ചു നോക്കൂ അവർക്ക് ഗുരുതരമായ ഫ്രാക്ചർകൾ ഉണ്ടായിരുന്നു അവയിൽ ചിലത് 2 ആയി തകർന്നു ഇത് ശരിക്കും രൂപകൽപ്പന ചെയ്ത എഞ്ചിനീയറിംഗ് കമ്മ്യൂണിറ്റിക്ക് കളങ്കമാണ് ഫ്രാക്ചർകൾ വളരെ ആസൂത്രിതമായി വിശകലനം ചെയ്തു നമ്മൾ ആ ഗ്രാഫുകളിൽ നിന്ന് ചിലത് കണ്ടുപിടിച്ച് ഉപയോഗപ്രദമായ ഡാറ്റ ശേഖരിക്കുകയും ചെയ്തു വാസ്തവത്തിൽ ഫ്രാക്ചർ മെക്കാനിക്സ് ഗവേഷണത്തിന് തുടക്കത്തിൽ സഹായം നൽകിയ നാവിക ഗവേഷണ ബോർഡാണ് അത്തരമൊരു പഠനത്തിൽ നിന്ന് ഫ്രാക്ചർ മെക്കാനിക്സ് വളർന്നതായി നിങ്ങൾ കാണുന്നു ബോർഡിന് അന്വേഷിക്കാൻ ഇത്തരത്തിലുള്ള നിർദ്ദേശം നൽകി അതും ഞാൻ വായിക്കും സെക്രട്ടറിമാരുടെ നിർദ്ദേശം ബോർഡിന് നൽകിയത് ഭാഗികമായി ഇങ്ങനെ വായിക്കാം ഇക്കാര്യത്തിൽ പൂർണ്ണമായ അന്വേഷണം നടത്തുക ഇത് സമർപ്പിക്കുകയും അതിന്റെ അന്വേഷണത്തിന്റെ അവസാനത്തിൽ വസ്തുതകൾ റിപ്പോർട്ട് ചെയ്യുകയും അവിടെ സ്ഥാപിക്കുകയും ചെയ്യും ഇത് ശരിക്കും ഒരു ശാസ്ത്രീയ സമീപനമാണ് എന്ന് ഞാൻ പറയും നിങ്ങൾ പരാജയങ്ങൾ നേരിടുമ്പോൾ കാരണം എന്താണെന്ന് അന്വേഷിച്ച് കണ്ടെത്തുക അതിനാൽ നിങ്ങൾ ഇത് വീണ്ടും ആവർത്തിക്കില്ല പരാജയങ്ങളെ പരിഹസിക്കുന്നതിനുപകരം പരാജയം എല്ലായ്പ്പോഴും പുതിയ ആശയങ്ങൾ കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു രീതിയാണ് പരാജയങ്ങളൊന്നുമില്ലാതെ ഒന്നും സംഭവിച്ചിട്ടില്ല നിങ്ങൾ ശരിക്കും ബ്രിഡ്ജ് രൂപകൽപ്പന നോക്കുകയാണെങ്കിൽ ആളുകൾ ഒരു സസ്പെൻഷൻ ബ്രിഡ്ജ് നിർമ്മിച്ചു ഏതാനും മാസത്തെ പ്രവർത്തനത്തിന് ശേഷം അത് ഭയങ്കരമായി സ്പന്ദിക്കുകയും പാലം മുഴുവൻ തകരുകയും ചെയ്തു റെസൊണൻസ് വളരെ പ്രധാനമാണെന്ന് ആളുകൾ മനസ്സിലാക്കി നിങ്ങൾ പരാജയങ്ങൾ നേരിടുമ്പോൾ അത് വ്യവസ്ഥാപിതമായി വിശകലനം ചെയ്യുക എന്നതാണ് പ്രധാനം ഇവിടെ വളരെ നല്ല ശാസ്ത്രീയ വിശകലനമാണ് നടത്തിയത് ഡിക്റ്റം ഇപ്രകാരം പറയുന്നു 'വസ്തുതകൾ വൈകല്യങ്ങളുടെ അസ്തിത്വം സ്ഥാപിക്കുകയാണെങ്കിൽ അവയുടെ രൂപകൽപ്പനയിലോ അത്തരം വ്യാപാര കപ്പലുകളുടെ നിർമ്മാണത്തിൽ പിന്തുടരുന്ന രീതികളിലോ ബോർഡിന്റെ അഭിപ്രായത്തിൽ അവിടത്തെ കടലിന്റെ യോഗ്യതയെ പ്രതികൂലമായി സ്വാധീനിക്കുന്നു അത്തരം വൈകല്യങ്ങൾ പരിഹരിക്കുന്നതിന് സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് ബോർഡ് ശുപാർശകളും സമർപ്പിക്കും ഇത് വളരെ വ്യക്തമാണ് ഡിസൈൻ ഒരു വശമാണ് എന്ന് ആളുകൾ മനസ്സിലാക്കി നിർമ്മാണവും നിർമ്മാണ രീതികൾ എത്ര നന്നായി നടപ്പാക്കുന്നു എന്നതും മറ്റൊരു വശമാണ് കാരണം നിങ്ങൾ വെൽഡിംഗ് ചെയ്യുമ്പോൾ അതൊരു ശ്രമകരമായ നിർമ്മാണ പ്രക്രിയയാണെന്ന് നിങ്ങൾക്കറിയാം വർഷങ്ങൾക്കു മുമ്പ് ആ ദിവസങ്ങളിൽ ആളുകൾക്ക് വെൽഡിംഗ് വൈകല്യങ്ങൾ പൂർണ്ണമായി മനസ്സിലായിട്ടില്ല ബോർഡ് അതിന്റെ സമീപനത്തിൽ വളരെ ശാസ്ത്രീയമായിരുന്നു തുറന്ന മനസ്സോടെ ശ്രദ്ധാപൂർവ്വം വളരെയധികം ഡാറ്റയും ശേഖരിക്കുകയും അതിനെ മനോഹരമായി ചിത്രീകരിക്കുകയും ചെയ്തു

നിങ്ങൾ ശരിക്കും നോക്കുകയാണെങ്കിൽ ഈ T 2 ടാങ്കർ ഷെനെക്ടഡി ചൂടുള്ള വെള്ളത്തിൽ എന്ന് പറയാൻ പറ്റില്ല തണുത്ത വെള്ളത്തിൽ രണ്ടായി വിഭജിച്ചപ്പോൾ മുഴുവൻ വിശകലനവും ആരംഭിച്ചു സ്വാൻ ദ്വീപിലെ തണുത്ത വെള്ളത്തിൽ ആണ് ഇത് സംഭവിച്ചത് ഇതാണ് ആ ടാങ്കർ ഈ കപ്പൽ രണ്ടായി പിളർന്നു ഇവിടെയുള്ള ഫ്രാക്ചർ നിങ്ങൾ കാണുന്നു ഈ ചിത്രം പ്രോജക്റ്റ് ലിബർട്ടി കപ്പലിൽ നിന്നുള്ളതാണ് ജലത്തിന്റെ താപനില 4 5 ഡിഗ്രി സെന്റിഗ്രേഡായിരുന്നു തുടർന്ന് പ്രശ്നം ഗൌരവമായി എടുത്തു കൂടാതെ ഇത് ഡെക്കിലൂടെയുള്ള ഫ്രാക്ചർ കാണിക്കുന്നു മുഴുവൻ ഡെക്കും എങ്ങനെ തകർന്നുവെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് വളരെ ഗുരുതരമായ കാര്യമാണ് സാധാരണഗതിയിൽ മൈൽഡ് സ്റ്റീൽ ചില സാഹചര്യങ്ങളിൽ ബ്രിട്ടിൽ ആയിത്തീരും എന്നതാണ് ഈ ദുരന്തങ്ങൾ കാണിക്കുന്നത് നിങ്ങൾ ശരിക്കും മെറ്റലർജിസ്റ്റുകളിലേക്ക് പോയാൽ ഡക്റ്റൈൽ ബ്രിട്ടിൽ പരിവർത്തനം എന്ന് വിളിക്കപ്പെടുന്ന ഒന്ന് ഉണ്ട് നമുക്ക് അത് പരിശോധിക്കാം ഒരു മെറ്റീരിയൽ എല്ലായ്പ്പോഴും ഡക്റ്റൈൽ പോലെ ഒന്നുമില്ല ചില താപനിലകൾക്ക് മുകളിൽ ഇത് ഒരു ഡക്റ്റൈൽ രീതിയിൽ പ്രവർത്തിക്കാം ചില താപനിലയിൽ താഴെ അത് ബ്രിട്ടിൽ ആയിത്തീരും അത്തരത്തിലുള്ള ഒരു ധാരണ വന്നു ഡക്റ്റൈൽ ബ്രിട്ടിൽ പരിവർത്തന താപനിലയും അതിൻറെ പ്രസക്തിയും ഡക്റ്റൈൽ ബ്രിട്ടിൽ പരിവർത്തനത്തിൽ നിങ്ങൾ കാണുന്നത് ഇതാണ് ഈ കോഴ്സിൽ നിങ്ങൾ പഠിക്കുന്ന ഫ്രാക്ചർ ടഫ്നെസ് ചെറിയ താപനില പരിധിയിൽ ഫെറിറ്റിക് സ്റ്റീലുകൾക്ക് ഇത് വ്യത്യാസമുണ്ടെന്ന് കാണാം കുറഞ്ഞ താപനിലയിൽ ബ്രിട്ടിൽ ആണ് കൂടാതെ പിളർപ്പിൽ പരാജയപ്പെടുന്നതുമാണ് ഉയർന്ന താപനിലയിൽ ഇത് ഡക്റ്റൈൽ ആയതിനാൽ മൈക്രോവോയ്ഡ് കോയലസെൻസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് തകർച്ച മൂലം പരാജയപ്പെടുന്നു നിങ്ങൾക്കുള്ളത് ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിന്റെ ഭംഗിയുള്ള ഒരു രേഖാചിത്രം നിർമ്മിക്കാൻ കഴിയും അതിനാൽ നിങ്ങൾ താപനിലയും ഫ്രാക്ചർ ടഫ്നെസും പ്ലോട്ട് ചെയ്യുന്നു ഗ്രാഫ് ഇതുപോലെയാണ്

ഈ മേഖലയിൽ വസ്തു 100 ശതമാനം ഡക്റ്റൈൽ ആണ് എൻഡിടി എന്ന് ലേബൽ ചെയ്തിരിക്കുന്ന ഈ താപനിലയ്ക്ക് ചുവടെ വിപുലീകരണം നിൽ ഡക്റ്റിലിറ്റി ട്രാൻസിഷൻ താപനിലയാണ് അതിനാൽ ഡക്റ്റൈൽ മുതൽ ബ്രിട്ടിൽ വരെ ഒരു പരിവർത്തന മേഖല ഉണ്ടെന്ന് നിങ്ങൾ കണ്ടെത്തി ന്യൂക്ലിയർ പവർ പ്ലാന്റുകളിൽ ഡിഗ്രഡഷൻ സംവിധാനങ്ങളുണ്ട് എന്ന് ആളുകൾ കണ്ടെത്തിയതായി ഞാൻ മുൻപ് പറഞ്ഞിരുന്നു ആണവോർജ്ജ നിലയങ്ങളെ എങ്ങനെ സുരക്ഷിതമായി സംരക്ഷിക്കാമെന്ന് ആളുകൾ മനസ്സിലാക്കണം ഘടന വികിരണത്തിന് വിധേയമാകുമ്പോൾ നിൽ ഡക്റ്റിലിറ്റി താപനിലയിൽ വലിയ മാറ്റം സംഭവിക്കുന്നു ആളുകൾ അത് മനസ്സിലാക്കുകയും അതിനെ ഒരു റേഡിയേഷൻ ഷിഫ്റ്റ് എന്ന് വിളിക്കുകയും ചെയ്യുന്നു അതിനാൽ ഇവിടെ മുഴുവൻ ഗ്രാഫും വലതുവശത്തേക്ക് മാറുന്നതായി കണ്ടെത്തുന്നു അതിനാൽ ഇതിനെ റേഡിയേഷൻ ഷിഫ്റ്റ് എന്ന് വിളിക്കുന്നു കൂടാതെ നിൾ ഡക്റ്റിലിറ്റി ട്രാൻസിഷൻ താപനില വർദ്ധിച്ചതായി നിങ്ങൾ കാണുന്നു അതിനാൽ ഒരു പരിധിവരെ വികിരണത്തിന്റെ വെളിപ്പെടുത്തൽ കാരണം ന്യൂക്ലിയർ പവർ ഇൻസ്റ്റാളേഷൻ തകരുന്നു ഡിസൈൻ ഘട്ടത്തിൽ തന്നെ ഈ ഘടകം കണക്കിലെടുക്കേണ്ടതുണ്ട് അതാണ് പ്രധാനം അതിനാൽ ലിബർട്ടി കപ്പൽ പരാജയം നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കാണിച്ചുതന്നു ഡക്റ്റൈലിൽ നിന്ന് ബ്രിട്ടിൽ ആയി മാറുന്ന ഒരു ആശയം ഉണ്ടെന്ന് ഒരു സംക്രമണ താപനില ഉണ്ട് കൂടാതെ ഒരു അനുബന്ധ റേഡിയേഷൻറെ ആശയം ഒരുതരം സങ്കീർണതയെ അവതരിപ്പിക്കുന്നു അതിനാൽ അവർ പരീക്ഷണ മാതൃകകൾ റിയാക്ടറിൽ സൂക്ഷിക്കുകയും ഇടയ്ക്കിടെ പുറത്തെടുക്കുകയും അതിന്റെ ഡക്റ്റിലിറ്റി പരിശോധിക്കുകയും ചെയ്യുന്നു ഇതെല്ലാം ന്യൂക്ലിയർ ആയതിനാൽ നിങ്ങൾക്ക് റേഡിയേഷന് എക്സ്പോഷർ ഉണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ റോബോട്ടുകൾ ഉപയോഗിച്ചിരിക്കുന്നത് വാസ്തവത്തിൽ റോബോട്ടിക് സാങ്കേതികവിദ്യ വികസിപ്പിച്ചെടുത്തു തുടക്കത്തിൽ ന്യൂക്ലിയർ ഇൻസ്റ്റാളേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടിവരുമ്പോൾ മാത്രം അവർ ഇടയ്ക്കിടെ മെറ്റീരിയൽ പുറത്തെടുക്കണം ടെസ്റ്റ് മാതൃകകൾ റിയാക്ടറിനുള്ളിൽ സൂക്ഷിക്കുന്നു അവ ഇടയ്ക്കിടെ പുറത്തെടുത്ത് പൂർണ്ണമായ പരിശോധന നടത്തുക മനുഷ്യരുടെ ഇടപെടൽ ഇല്ലാതെ റോബോട്ടിക് കൈകളും ഉപകരണങ്ങളും മറ്റും ഉപയോഗിച്ച് ഇത് ചെയ്യേണ്ടതുണ്ട് അത്തരത്തിലുള്ള ഏതെങ്കിലും ഇൻസ്റ്റാളേഷനുകൾ നിങ്ങൾ നിരീക്ഷിക്കേണ്ടത് ഇങ്ങനെയാണ് അതിനാൽ ഒരു ലിബർട്ടി കപ്പൽ പരാജയത്തിൽ നിന്ന് നിങ്ങൾ കണ്ടെത്തുന്നത് ഒരു ഡക്റ്റൈൽ മെറ്റീരിയൽ ബ്രിട്ടിൽ ആയി തീരും അതിനാൽ അതിൽ നിന്ന് നിങ്ങൾ നേടിയ പ്രധാന പഠനം അതാണ് ഇതെല്ലാം ഈ കപ്പലിന്റെ പരാജയത്തിൽ നിന്നാണ് ആരംഭിച്ചത് ഇത് യാർഡിൽ ഡോക്ക് ചെയ്യപ്പെട്ടിരുന്നു കനത്ത കടലിൽ അല്ല ഈ പരാജയം സംഭവിച്ചത് ഇതാണ് പ്രധാനമെന്ന് നിങ്ങൾക്കറിയാം

കനത്ത കടലിൽ ആയിരുന്നുവെങ്കിൽ ആളുകൾ ഇത് വളരെ ഉയർന്ന തിരമാലകൾ കാരണം ഉണ്ടായ ഒരു പരാജയം ആയോ അല്ലെങ്കിൽ ചില ബോംബ് കപ്പലിലേക്ക് പതിച്ചതായോ ഉള്ള ചില വിശദീകരണങ്ങൾ നിങ്ങൾക്ക് നൽകാൻ കഴിയുമായിരുന്നു പക്ഷേ യാർഡിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു കപ്പൽ തകരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല അതിനാൽ ഇത് ഘടനാപരമായ രൂപകൽപ്പനയും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഒന്നാണ് എന്ന സൂചന തന്നു നിങ്ങൾ ശരിക്കും നോക്കുകയാണെങ്കിൽ ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ സാധാരണ ഉയർന്ന ഗ്രേഡ് കപ്പൽ സ്റ്റീലിനായി ഡക്റ്റൈൽ ബ്രിട്ടിൽ പരിവർത്തനം 10 ഡിഗ്രി സെന്റിഗ്രേഡ് മാത്രമായിരുന്നു അത് വളരെ ഉയർന്നതാണ് കാരണം ഓപ്പറേറ്റിംഗ് താപനില ഇതിനേക്കാൾ വളരെ താഴെയാണ് നിങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായിരുന്നില്ല

റിവേറ്റഡ് കപ്പലുകളിൽ മാത്രം അവർ ഒതുങ്ങിയിരുന്നുവെങ്കിൽ വിള്ളലുകൾ ഉണ്ടാകുമായിരുന്നു പക്ഷേ അവ മറ്റൊരു റിവറ്റ് ദ്വാരത്തിൽ നിൽക്കുമായിരുന്നു ഒരു വെൽഡഡ് കപ്പലിൽ സംഭവിച്ചത് തടഞ്ഞുനിർത്താൻ ഒന്നുമില്ല അതിനാൽ വിള്ളൽ മുഴുവൻ കപ്പലിലൂടെ കടന്നുപോയി ഫ്രാക്ചർ സംഭവിച്ചു അവർക്ക് മുന്നറിയിപ്പ് ലഭിച്ചിരുന്നില്ല താപനിലയിലെ മാറ്റം ഒരു പ്രധാന കാരണമാണ് ഈ പരാജയങ്ങളുമായി ബന്ധപ്പെട്ട ഡാറ്റയും ഉണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ NDT ക്ക് താഴെ കപ്പൽ ഗ്ലാസ് പോലെ തകർന്നതായി നിങ്ങൾ കാണുന്നു അതിനർത്ഥം മുന്നറിയിപ്പില്ലാതെ പെട്ടെന്ന് കപ്പൽ രണ്ടായി പിളർന്നു ഇത് വളരെ അപകടകരമാണ് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സമയമില്ല വാസ്തവത്തിൽ അത്തരം പരാജയങ്ങൾ സംഭവിക്കുകയും അത് രേഖപ്പെടുത്തുകയും വിശകലനം ചെയ്യുകയും ചെയ്തു നിങ്ങൾ നോക്കേണ്ടത് ആളുകൾ ആ പരാജയങ്ങളെല്ലാം വിശകലനം ചെയ്തു എന്നതാണ് അത്തരം നിരവധി ഗ്രാഫുകൾ ലഭ്യമാണ് കപ്പൽ രൂപകൽപ്പന ചെയ്ത ആദ്യ കുറച്ച് വർഷങ്ങളിൽ നിങ്ങൾക്ക് നിരവധി പരാജയങ്ങൾ ഉണ്ടായിരുന്നതായി കണ്ടെത്തി ഇത് അനാരോഗ്യകരമായ ഒന്നാണ് ഇത് 42 മുതൽ 52 വരെയുള്ള കാലയളവിൽ നൽകുന്നു കൂടാതെ നിങ്ങൾക്ക് കടലിലെ അവസ്ഥ കാണിക്കുന്ന മറ്റൊരു കൂട്ടം ഗ്രാഫുകളും ഉണ്ട് ഇതിന്റെ ഒരു പകർപ്പ് നിങ്ങൾ നിർമ്മിക്കേണ്ടതുണ്ടെന്ന് ഞാൻ കരുതുന്നു കാരണം ഇവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കനത്ത കടലുകളിൽ 154 ഓളം പരാജയങ്ങൾ ഉണ്ടായിരുന്നു മിതമായ സമുദ്രാവസ്ഥയിൽ ഇത് 20 ആണ് കടൽ ശാന്തമാകുമ്പോൾ അത് ഏകദേശം 23 ആണ് അതാണ് ശാസ്ത്രജ്ഞരെ ഇതിനെ കൂടുതൽ സൂക്ഷ്മതയോടെ നോക്കാൻ സൂചന നൽകിയത് എന്താണ് പരാജയത്തിന് കാരണമായത് നിങ്ങൾ ഇത് കണ്ടെത്തുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ കനത്ത സമുദ്ര താപനിലയേക്കാൾ 8 ഡിഗ്രി സെന്റിഗ്രേഡാണ് താപനില അതിനാൽ പരാജയത്തിന് കാരണമായത് എന്താണെന്ന് സസൂക്ഷ്മം നിരീക്ഷിച്ചാണ് ഇവയെല്ലാം കണ്ടെത്തിയത് അതിനാൽ ആ ഡാറ്റയിൽ നിന്ന് നിങ്ങൾക്ക് വേർതിരിക്കാനും കണ്ടെത്താനും കഴിയും ശാന്തമായ കടൽ സാഹചര്യങ്ങളിൽ പോലും പരാജയം സംഭവിക്കാം എന്ന് അത് സംഭവിച്ചു

ഒടുവിൽ ഡിസൈൻ വളരെ മോശമാണെന്ന് നിങ്ങൾക്ക് തോന്നേണ്ടതില്ല നിങ്ങൾക്ക് ഇപ്പോഴും നല്ലൊരു ലിബർട്ടി കപ്പൽ ലഭ്യമാണ് നിർമ്മിച്ച നിരവധി കപ്പലുകളിൽ രണ്ടെണ്ണം ഇപ്പോഴും അവശേഷിക്കുന്നു അത് നിങ്ങൾക്ക് കാണാം ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഒരു രസകരമായ സവാരിക്ക് പോകാം 1941 നും 45 നും ഇടയിൽ നിർമ്മിച്ച 2751 കപ്പലുകളിൽ രണ്ടെണ്ണം മാത്രമാണ് അവശേഷിക്കുന്നതെന്ന് അവർ ഓർക്കുന്നു നൊസ്റ്റാൾജിക് ഓർമ്മകളും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ യുദ്ധത്തിൽ പങ്കെടുത്ത സൈനികരുടെ പേരിലാണ് അത് അറിയപ്പെടുന്നത് എസ് എസ് ജോൺ ഡബ്ല്യു ബ്രൌൺ മറ്റൊരാൾ യിരെമ്യാവ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ കപ്പലുകളിൽ പ്രത്യേക ക്രൂയിസ് ഉണ്ട് ആധുനിക വികാസത്തിലേക്ക് നിങ്ങൾ ശരിക്കും നോക്കുകയാണെങ്കിൽ ഇരുപതാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ കപ്പൽ സ്റ്റീലുകൾക്ക് ഈ എൻഡിടി 10 ഡിഗ്രി സെന്റിഗ്രേഡ് ആയിരുന്നുവെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഇത് മൈനസ് 4 5 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ് ഇത് അതിന്റെ ഒരു വശമാണ് അതിനർത്ഥം ഒരു പരാജയം സംഭവിക്കുമ്പോൾ മെറ്റീരിയൽ മെച്ചപ്പെടുത്തേണ്ടതുണ്ട് അതിനാൽ ആളുകൾ മെറ്റീരിയൽ പഠിക്കുകയും നിൽ ഡക്റ്റിലിറ്റി സംക്രമണ താപനില കുറയ്ക്കാൻ അവർക്ക് കഴിയുകയും ചെയ്തു അതിനാൽ പുതിയ സ്റ്റീലുകൾ അങ്ങനെയാണ് നിങ്ങളുടെ രൂപകൽപ്പനയുടെ ഭാഗമായി അന്തർനിർമ്മിത ക്രാക്ക് അറസ്റ്ററുകളെ കൊണ്ടുവരിക എന്നതാണ് മറ്റൊരു മെച്ചപ്പെടുത്തൽ ഈ ക്രാക്ക് അറസ്റ്ററുകൾ എന്തുചെയ്യും അവ എളുപ്പത്തിൽ വിള്ളൽ പ്രചരിപ്പിക്കുന്നത് തടയുന്നു അങ്ങനെയാണു നിങ്ങൾ ഫ്രാക്ചർ കൈകാര്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഡിസൈൻ മെച്ചപ്പെടുത്തുന്നതിനും സംരക്ഷിക്കുന്നതിനും നിങ്ങൾ ചില മാർഗ്ഗങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് ഒരു വിള്ളൽ ഉണ്ടാകുമ്പോൾ അത് എളുപ്പത്തിൽ പ്രചരിപ്പിക്കാൻ നിങ്ങൾ അനുവദിക്കുന്നില്ല അതിനാൽ ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് നമ്മൾ ഫാറ്റിഗ് പരിശോധനയിൽ തുടങ്ങി മാതൃക പരാജയപ്പെടുന്നതിനുള്ള സൈക്കിളുകളുടെ എണ്ണം മാത്രം കണ്ടെത്തുക എന്നതായിരുന്നു നിങ്ങളുടെ ഫോക്കസ് നിങ്ങൾ പരിശോധന നടത്തുമ്പോൾ വിള്ളൽ എങ്ങനെയാണ് പ്രചരിക്കുന്നത് എന്നതിനെക്കുറിച്ച് നിങ്ങൾ ഒരു കുറിപ്പും എടുത്തില്ല പിന്നീട് നമ്മൾ പ്രശസ്തമായ പരാജയങ്ങൾ നോക്കി നാലിൽ രണ്ടെണ്ണം നമ്മൾ കണ്ടു അതിലൊന്നാണ് ബോസ്റ്റൺ മോളാസസ് പരാജയം മറ്റൊന്ന് ലിബർട്ടി കപ്പൽ പരാജയമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചതെന്തെന്നാൽ പരാജയങ്ങളാൽ ആളുകൾ വ്യതിചലിച്ചില്ല അവർ ഇത് ഒരു വെല്ലുവിളിയായി സ്വീകരിച്ചു ഭാവിയിലെ രൂപകൽപ്പന മെച്ചപ്പെടുത്തുന്നതിനായി പ്രസക്തമായ ഡാറ്റ ശേഖരിക്കുന്നതിന് പരാജയങ്ങൾ ആസൂത്രിതമായി വിശകലനം ചെയ്തു